എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എല്ലിന്റെ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഐ ടിയിൽ നിന്നുള്ള രവിചന്ദ്രനാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നു തുടർന്ന് നമ്മൾ ഇതിനകം മൊഡ്യൂൾ 4 ലെക്ചർ നമ്പർ 10 എന്നിവയിലാണ് ഈ ആഴ്ച പ്രത്യേകിച്ചും ഞാൻ സംഘർഷ പരിഹാര വൈദഗ്ധ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നിന് ഒരു പ്രഭാഷണം ഉപയോഗിച്ചത് എന്ന് ചിന്തിക്കുന്നു ആശയം എന്നാൽ ഇത് ഒരു ആശയമാണ് ഞാൻ ഇത് 4 പ്രഭാഷണങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇതാണ് അവസാനത്തെ പ്രഭാഷണം വാസ്തവത്തിൽ സംഘർഷ പരിഹാര വൈദഗ്ധ്യങ്ങളെക്കുറിച്ച് ഞാൻ നിഗമനം ചെയ്യാൻ പോകുന്നു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സമയം ചെലവഴിക്കുന്നതെന്ന് അത്ഭുതപ്പെടുന്നു വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നൈപുണ്യമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായി സംഘർഷ പരിഹാര വൈദഗ്ദ്ധ്യം നിങ്ങളെ പ്രൊഫഷണൽ സർക്കിളിൽ മാത്രമല്ല വ്യക്തിഗത സർക്കിളിലും വളരെയധികം ആവശ്യപ്പെടാൻ കഴിയും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരു സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം അവർ നിങ്ങളെ കാത്തിരിക്കും നിങ്ങൾ വന്ന് അവരുടെ സംഘർഷങ്ങൾ പരിഹരിക്കണമെന്നും അവരുടെ സംഘർഷങ്ങൾ പരിഹരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ ആളുകളുമായി യോജിച്ച ബന്ധം നിലനിർത്തുകയും നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു എല്ലാവരും ഒരു വ്യക്തിയിൽ തിരയുന്ന ഒരു നൈപുണ്യമാണിത് ഇത് നിങ്ങളുടെ നിലവാരം നിർണ്ണയിക്കുന്നു നിങ്ങൾ ഒരു നല്ല നേതാവാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മൊത്തത്തിൽ ഒരു നല്ല വ്യക്തിയാണെങ്കിലും സ്വയം മികവ് പുലർത്താൻ ആർക്കാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക എല്ലാം നിർണ്ണയിക്കുന്നത് ഇതാണ് ഇതിനായി ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് അതിനാൽ ഈ യൂണിറ്റിൽ നമുക്ക് ചില തരത്തിലുള്ള സംഘർഷങ്ങളും ചില തരങ്ങളും നോക്കാം അവർ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഓരോ തവണയും ഞാൻ ചെയ്യുന്നതുപോലെ പോകുന്നതിനുമുമ്പ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ചില ദ്രുത ഹൈലൈറ്റുകൾ നോക്കാം അവസാന പ്രഭാഷണത്തിൽ വ്യക്തിപരമായ തലത്തിൽ രണ്ട് സംഘർഷങ്ങൾക്കുള്ള ചില പരിഹാരങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു ഒന്ന് അച്ഛനും മകനും മറ്റൊരാളും പ്രണയത്താൽ വിവാഹം കഴിച്ച ദമ്പതികൾക്കിടയിലായിരുന്നു എന്നാൽ പിന്നീട് ആരാണ് അവർ വിവാഹമോചനം എന്ന ഘട്ടത്തിലെത്താൻ പോകുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇരുവശത്തേക്കും നോക്കണം എന്നാൽ ഒരേ സമയം മൂന്നാം വശത്തിനും ആകസ്മികത നൽകാൻ നിങ്ങൾക്ക് കഴിയണം ബെർട്രാൻഡ് റസ്സൽ പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്നും ഞാൻ എടുത്തുപറഞ്ഞു ജ്ഞാനം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ലേഖനമായ അറിവും ജ്ഞാനവും ആളുകളിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ സംഘർഷങ്ങളിൽ പരസ്പരം യോഗ്യതകൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് അവർ പരസ്പരം വെറുക്കുകയും തുടർന്ന് ആ വ്യക്തികളുമായി നോട്ടുകൾ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് ദോഷകരമാണ് അതിനാൽ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ വ്യത്യസ്തമായ രീതിയിൽ നിർദ്ദേശിച്ചു എന്നിട്ട് ആ ആളുകളിൽ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം മനസ്സിലും സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതിനുപുറമെ നമുക്ക് സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന മറ്റ് ലളിതമായ വഴികളുണ്ട് ഇപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഊന്നൽ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്ന് ആളുകളോട് പറഞ്ഞാൽ പോലുള്ള മറ്റ് ലളിതമായ വഴികളുണ്ട് ആ ആളുകളിൽ നിന്ന് ഒരു പരിഹാരത്തിനായി പോരാടുന്നതിനോ ആവശ്യപ്പെടുന്നതിനോ പകരം യഥാർത്ഥത്തിൽ ഇത് ആവശ്യമാണ് നിങ്ങൾ എനിക്ക് ഈ പരിഹാരം തരുമെന്ന് അവരോട് പറയുന്നതിനുപകരം ഇതാണ് എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആളുകളെ സംഘർഷത്തിലാക്കുന്നതിനുപകരം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഊന്നിപ്പറയുകയാണെങ്കിൽ അതിനാൽ മിക്കപ്പോഴും ആളുകൾ നിങ്ങൾക്ക് അത്തരം ആവശ്യം നൽകാനോ ആവശ്യം തൃപ്തിപ്പെടുത്താൻ സഹായിക്കാനോ പ്രവണത കാണിക്കുന്നു ഇപ്പോൾ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മറ്റ് ലളിതമായ മാർഗങ്ങളായി ഞാൻ കരുതുന്ന ചില ഉദാഹരണങ്ങൾ നോക്കുക ഇപ്പോൾ ഈ വശം ആരെങ്കിലും പരിഹാരം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് ഒരു സഹോദരിയും സഹോദരനും തമ്മിലുള്ള സാഹചര്യമാണെന്ന് പറയട്ടെ അവളുടെ സഹോദരൻ ഉച്ചത്തിൽ സംഗീതം വായിക്കുകയും അവനോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഈ സഹോദരിയുടെ രംഗം ഒരുപക്ഷേ അടുത്തുള്ള മുറിയിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അത് അവളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു അവൾ വരുന്നു പിന്നെ അവൾക്ക് ക്ഷമ നഷ്ടപ്പെടുന്നു തുടർന്ന് അവൾ അവരോട് നിലവിളിക്കുകയും അവൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുഃ കുരങ്ങുകളേ നിങ്ങൾക്ക് പുറത്ത് പോയി മരങ്ങളിൽ ചാടാനും തമാശ പറയാനും കഴിയുമോ എനിക്ക് സമാധാനപരമായ അന്തരീക്ഷം വേണം തീർച്ചയായും പറയുന്നുഃ നിങ്ങൾ വെറുതേ വിറയ്ക്കുന്നു നിങ്ങൾ കാണുന്നതുപോലെ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു സ്ഥലം കണ്ടെത്താം ഇപ്പോൾ അതേ സാഹചര്യം മാറ്റാൻ കഴിയും സഹോദരി യഥാർത്ഥത്തിൽ അവളുടെ ആവശ്യം ഊന്നിപ്പറയുകയും തുടർന്ന് അവൾക്കായി ശാന്തത നിലനിർത്തേണ്ടത് എന്തുകൊണ്ടാണെന്ന് മറ്റ് കക്ഷികളെ മനസ്സിലാക്കുകയും ചെയ്തു അത് മാറ്റാൻ കഴിയുന്ന മറ്റൊരു വഴി നോക്കൂ സഹോദരി പോയി ഹായ് സുഹൃത്തുക്കളേ എന്നിട്ട് പറയുന്നു നല്ല സംഗീതം എന്നിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ഒരു നല്ല അന്തരീക്ഷം ആവശ്യമാണ് കാരണം ഞാൻ നാളെ എന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് അവരുടെ ആവശ്യം അവരോട് പറയുന്നു പിന്നെ സഹോദരനും സുഹൃത്തുക്കളും മിക്കവാറും അവർ ഇത് പറയാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഉടൻ പോകും നിങ്ങൾക്ക് സമാധാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ എന്താണ് സാഹചര്യത്തെ മാറ്റിയത് മുമ്പത്തേതിൽ അവളുടെ ആവശ്യം എന്താണെന്ന് അവൾ അവരോട് പറഞ്ഞില്ല തുടർന്ന് അവൾ കോപം പ്രകടിപ്പിച്ചു ആദ്യം അവൾ പൊട്ടിത്തെറിച്ചു തുടർന്ന് അവൾ തൻറെ രീതിയോട് വേഗത്തിൽ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു വികാരം കൊണ്ട് പൊട്ടിത്തെറിച്ചു മറ്റൊന്നിൽ അവൾ തന്റെ വികാരത്തെ നിയന്ത്രിച്ചു തുടർന്ന് അവരെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു ശരി നിങ്ങൾ സംഗീതം നന്നായി ആസ്വദിക്കുന്നു പക്ഷേ എനിക്ക് ഇത് ആവശ്യമാണ് അതിനാൽ മിക്ക സാഹചര്യങ്ങളിലും അവളുടെ ആവശ്യം നിറവേറ്റാൻ സഹായിക്കാൻ അവൾ യഥാർത്ഥത്തിൽ അവർക്ക് അവസരം നൽകി നിങ്ങൾക്ക് ആവശ്യത്തിന് ഊന്നൽ നൽകാൻ കഴിയുമെങ്കിലും ഒരു പരിഹാരം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മറ്റൊരു സാഹചര്യം നോക്കൂഃ എനിക്ക് ശാന്തത ഇഷ്ടമാണ് നിങ്ങൾക്ക് ടിവി ഓഫ് ചെയ്ത് അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ ഭർത്താവേ പക്ഷേ എന്റെ പ്രിയപ്പെട്ട പരിപാടി നടക്കുന്നു അതിന് സമയമെടുക്കും നിങ്ങൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ടിവി കാണുകയല്ലാതെ അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾ ഒരു പരിഹാരം ആവശ്യപ്പെട്ടു ഇപ്പോൾ ആവശ്യത്തിന് ഊന്നൽ നൽകുന്ന കാര്യത്തിൽ അതേ സാഹചര്യം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് നോക്കുക എന്റെ യോഗ ചെയ്യാൻ എനിക്ക് ശാന്തമായ ഒരു സ്ഥലം വേണമെന്ന് അവൾ പറയുന്നു ഒരുപക്ഷേ അവൾ ഒരു പ്രിയപ്പെട്ടതോ തേനും ചേർക്കുന്നു തുടർന്ന് ഇത് പറയുന്നു ഇപ്പോൾ ഭർത്താവിന് ഇനിപ്പറയുന്ന പ്രതികരണങ്ങളിൽ ഒന്ന് നൽകാൻ കഴിയും ആവശ്യത്തിന് ഊന്നൽ നൽകിയാൽ അദ്ദേഹത്തിന് കഴിയും ശരി പ്രിയ ഞാൻ ടിവി ഓഫ് ചെയ്ത് ആ നോവൽ വായിക്കും ഞാൻ നിങ്ങളെ സമാധാനത്തോടെ വിടുന്നു രണ്ടാമതായി ഞാൻ ബ്ലൂട്ടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും അങ്ങനെ വീണ്ടും മുറി ശാന്തമായിരിക്കും പക്ഷേ ഇത് ഒരുതരം വിജയമാണെന്ന് ഞാൻ കേൾക്കുന്നു മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നു ഞാൻ ഇപ്പോൾ ജോഗിംഗിന് പോകും അതിനാൽ അതും സാധ്യമാണ് നാലാമത്തേത് അദ്ദേഹം പറയുന്നു എനിക്ക് ഇന്റർനെറ്റിൽ പ്രോഗ്രാം കാണാൻ കഴിയുന്നത് കാര്യമാക്കേണ്ട പിന്നീട് ഞാൻ നിങ്ങൾക്കായി അത് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഊന്നൽ നൽകിയാൽ എല്ലാം സാധ്യമാണ് അതിനാൽ സംഘർഷ പരിഹാരങ്ങളുടെ മറ്റ് വശങ്ങൾ പരീക്ഷിക്കാതെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി ഏതുതരം സംഘട്ടനങ്ങളാണ് നാം അഭിമുഖീകരിക്കുന്നത് അവരെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാനാകും ഇപ്പോൾ ആളുകൾ സംഘർഷങ്ങളെ നോക്കുന്ന ഏകദേശം 6 8 വഴികളുണ്ട് പക്ഷേ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പറയും അവയെല്ലാം നാല് വിഭാഗങ്ങളായി തിരിക്കുക ഏറ്റവും ആന്തരികമായത് ഇൻട്രാപഴ്സണൽ ആണ് അതായത് ഉള്ളിൽ സംഭവിക്കുന്ന സംഘർഷം ഞാൻ ഇത് ഉടൻ വിശദീകരിക്കാൻ പോകുന്നു പക്ഷേ ഇത് ഞാനും ഞാനും തമ്മിലുള്ളതാണ് ഞാനും ഞാനും ശരി ഈ സംഘർഷം ഇൻ്റർപേഴ്സണൽഃ ഞാൻ ആരോടെങ്കിലും മറ്റാരെങ്കിലും ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാൻ എന്റെ ശത്രുക്കൾക്കൊപ്പം ഞാൻ എന്റെ മേലധികാരിയോടൊപ്പം ഞാൻ എന്റെ സഹപ്രവർത്തകരോടൊപ്പം അങ്ങനെ വ്യക്തിപരമായി ഇൻട്രാഗ്രൂപ്പ് അതായത് ഗ്രൂപ്പിനുള്ളിലും ഒരു ഗ്രൂപ്പിനുള്ളിലും അതിനാൽ ഒരു കൂട്ടം ആളുകൾ എന്നാൽ ഗ്രൂപ്പിനുള്ളിൽ ഭിന്നസംഖ്യകൾ ഉണ്ട് അഭിപ്രായവ്യത്യാസങ്ങൾ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു രണ്ട് കമ്പനികൾ പോരാടുന്ന വ്യത്യസ്ത തരത്തിലുള്ള കോർപ്പറേറ്റ് അന്തരീക്ഷത്തിലെന്നപോലെ ഇന്റർഗ്രൂപ്പുകൾ പരസ്പരം സാംസങ്ങും ആപ്പിളും അല്ലെങ്കിൽ ചെറിയ കമ്പനികൾ പ്രാദേശിക കമ്പനികൾ പരസ്പരം എതിർവശത്തുള്ള രണ്ട് കടകൾ തുടർന്ന് അവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി പോരാടുന്നു ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇന്റർഗ്രൂപ്പാണ് ഇപ്പോൾ ഇൻട്രാ ഒരേ ഗ്രൂപ്പിനുള്ളിലാണ് ഇൻ്റർപേഴ്സണൽ രണ്ട് വ്യക്തിപരമായ ബന്ധങ്ങൾക്കിടയിലാണ് ഇൻട്രാ പേഴ്സണൽ ഒരു വ്യക്തിക്കുള്ളിലാണ് ഇപ്പോൾ നമ്മൾ വിജയിക്കേണ്ട ഏറ്റവും കഠിനമായ യുദ്ധം ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഇത് കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും കഠിനമായ സംഘർഷ പരിഹാര കഴിവുകൾ ആവശ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ ഇൻട്രാ പേഴ്സണൽ അതായത് ഉള്ളിൽ സംഭവിക്കുന്ന സംഘർഷങ്ങൾ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെ നിരവധി ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നോക്കൂ അത് നിങ്ങളെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പം അതിനാൽ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ചോദിക്കുന്നത് തുടരുക ഞാൻ നൽകിയ ചില ഉദാഹരണങ്ങൾ നോക്കുക എഴുന്നേൽക്കണോ വേണ്ടയോ അലാറം മുഴങ്ങിയതിനുശേഷം എഴുന്നേൽക്കണോ അതോ നിർത്തണോ പിന്നെ കുറച്ച് സമയം കൂടി ഉറങ്ങണോ ഈ സമയത്ത് എഴുന്നേൽക്കണോ വേണ്ടയോ എഴുന്നേറ്റതിനുശേഷം ഒരു കപ്പ് ചായ കുടിക്കുന്നതിനുമുമ്പ് പല്ല് തേയ്ക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യരുത് ഉറക്കത്തിൽ കൂടുതൽ സമയം ലാഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ആ ദിവസം രാവിലെ നടക്കാൻ പോകണോ വേണ്ടയോ നിങ്ങൾ പരിഹരിക്കേണ്ട സംഘർഷങ്ങളാണിവ ആരോടെങ്കിലും സംസാരിക്കണോ വേണ്ടയോ കുളിക്കണോ വേണ്ടയോ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് അപ്പോൾ കുളിക്കണോ വേണ്ടയോ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ആ ജോലി പൂർത്തിയാക്കാൻ ഞാൻ അത് ചെയ്യണോ വേണ്ടയോ കാലതാമസം നിർത്തണോ വേണ്ടയോ ഞാൻ കാലതാമസം വരുത്തണോ അതോ നിർത്തണോ അലസത ഉപേക്ഷിക്കണോ വേണ്ടയോ വാസ്തവത്തിൽ നിങ്ങൾ പരിഹരിക്കേണ്ട ഏറ്റവും കഠിനമായ പോരാട്ടമാണിതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനും ഡേവിഡ് മക്ലെലാൻഡും മാസ്ലോയും സംസാരിക്കുന്ന മികവിന്റെ തലത്തിലെത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ തലത്തിലെത്തണമെങ്കിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ അലസത ഉപേക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രക്രിയ പോലെ മറ്റ് പുരോഗമിക്കുമ്പോൾ നിങ്ങൾ അത് നിർത്തുമെന്ന് തീരുമാനിക്കുന്നു നിങ്ങളിൽ ഭൂരിഭാഗവും ഈ സമയമായപ്പോഴേക്കും അലസത ഉപേക്ഷിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്ന് ചോദ്യങ്ങൾ പോലും വിജയിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ചില ആളുകൾ വിജയത്തെ ശരിക്കും ഭയപ്പെടുന്നു ചിലർ പ്രശസ്തിയെ ഭയപ്പെടുന്നു ചിലർ പ്രത്യേകിച്ച് ഓ എന്ന് ചിന്തിക്കുക ഞാൻ പ്രശസ്തനാണെങ്കിൽ എനിക്ക് ചുറ്റും നിരവധി ആളുകൾ ഉണ്ടാകും അതിനാൽ എനിക്ക് എനിക്കുവേണ്ടി സമയമില്ല അതിനാൽ ഞാൻ പ്രശസ്തനാകാതിരിക്കട്ടെ ഞാൻ വിജയിക്കാതിരിക്കട്ടെ തുടർന്ന് അവസാന ചോദ്യം ഒരു സ്വയം യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയാകണോ അല്ലയോ എന്നത് ഒരാളുടെ സ്വന്തം കാര്യമാണ് സ്വയം യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ആന്തരികത ലഭിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷം പക്ഷേ അപ്പോഴും നിങ്ങൾ സ്വയം സംശയിക്കുംഃ ഞാൻ അത് ചെയ്യണോ വേണ്ടയോ എനിക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞാൻ ശരിക്കും അത് ചെയ്യുകയും ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യണോ ഈ കോഴ്സിനൊപ്പമോ അല്ലാതെയോ സംഘർഷങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചിന്തകളാണിവ തുടർന്ന് ഓരോ തവണയും നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യുന്നു നിങ്ങൾ അവ പരിഹരിക്കാൻ ശ്രമിക്കുന്നു പിന്നെ ചിലപ്പോൾ അത് മാറുന്നു വളരെ തത്ത്വചിന്താപരവും ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ കഥാപാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്ര വലുതും പ്രശസ്തമായ വാചകം ആകണോ വേണ്ടയോ അതാണ് അദ്ദേഹം പറയുന്ന ചോദ്യം അതാണ് ആത്യന്തികമായത് ഈ തരത്തിലുള്ള പോരാട്ടങ്ങളിൽ ജീവിക്കണോ വേണ്ടയോ എന്ന മാനസിക സംഘർഷത്തിന്റെ രൂപം അവൻ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ സംഘർഷങ്ങളെ നെഗറ്റീവ് ചട്ടക്കൂടിലും നെഗറ്റീവ് കാഴ്ചപ്പാടിലും കാണുന്നത് കൂടാതെ നിങ്ങൾ വൈരുദ്ധ്യങ്ങൾ നെഗറ്റീവ് ആയി കാണുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയും എന്ന് നിങ്ങൾക്കറിയാം ഇല്ല സംഘർഷങ്ങളെ വളരെ ക്രിയാത്മകമായ വീക്ഷണകോണിൽ നിന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ അത് നോക്കൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ രീതിയിൽ നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ആ രീതിയിൽ നോക്കേണ്ടത് ദേഷ്യം ഒന്നാമതായി നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദേഷ്യപ്പെടുമ്പോൾ ആരെങ്കിലും അഭിമുഖീകരിക്കുന്നതുപോലെ പുഞ്ചിരിക്കൂ മുഖവില വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾ ആരെയെങ്കിലും കാണുമ്പോൾ കോപം അത് ദി ഏറ്റവും വൃത്തികെട്ട മുഖത്തെപ്പോലെ അവർക്ക് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു പ്രത്യേകിച്ചും നിങ്ങൾ വൈകാരിക ശൃംഖലയിലാണെങ്കിൽ ആ വ്യക്തി ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ മറ്റെല്ലാവരും മാറ്റിവയ്ക്കപ്പെടുന്നു അവർ എന്തെങ്കിലും പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവർക്ക് പേടിയുണ്ട് ഇപ്പോൾ കുടുംബസംവിധാനത്തിൽ ദേഷ്യപ്പെട്ട ഒരു പിതാവ് അമ്മയെ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് കാണാം ഇപ്പോൾ കുട്ടികൾ വളരെ ഉത്കണ്ഠാകുലരാകുന്നു അതിനാൽ അവർ മാനസികമായി അടിച്ചമർത്തപ്പെടുന്നു അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാൻ പോലും അവർക്ക് കഴിയില്ല അവർ പോയി അമ്മയെ പ്രതിരോധിക്കുന്നു അവർ പോയി അച്ഛനുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും അവന്റെ സാന്നിധ്യവും നിലവിളിയും കോപവും കാണിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തുന്നു ഇപ്പോൾ മറ്റ് ആളുകൾ ഭയപ്പെടുന്നു കാരണം അവർ സംഘർഷങ്ങൾ ഒരു തരത്തിലുള്ളതായി കാണുന്നു മനഃശാസ്ത്രപരമായ ഭീഷണികൾ ഒരുതരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഓരോ തവണയും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവർ കരുതുന്നു അതിനാൽ അവർ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് ആളുകൾ പൊതുവെ അഭിപ്രായവ്യത്യാസങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളോട് വിയോജിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എത്ര തവണ ഇഷ്ടപ്പെട്ടു അതിനാൽ സാധാരണയായി വിയോജിക്കുന്നവരോട് ആളുകൾക്ക് അവരുടെ സ്നേഹവും വാത്സല്യവും നഷ്ടപ്പെടും അവർ നിരന്തരം അവർ ഒന്നുകിൽ ആ ആളുകളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ശത്രുത കാണിക്കുകയോ ചെയ്യും ചില സമയങ്ങളിൽ മറ്റുള്ളവരുമായി വിയോജിക്കുന്നവരെ അവർ പൂർണ്ണമായും തടയും അതിനാൽ വിയോജിപ്പ് നല്ലതാണ് പക്ഷേ വിയോജിപ്പിന് ശേഷം സൌമ്യമായ ഒരു കരാറും ബന്ധത്തിൽ നിലനിൽക്കുന്ന ഐക്യം പുനഃസ്ഥാപിക്കുകയും വേണം എന്നാൽ ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ഉചിതമല്ല അത് ഒരു സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം അത് ഒരു വിയോജിപ്പാണെന്നും അപ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടരുതെന്നും ആളുകൾ ചിന്തിക്കുന്നതിനുള്ള മറ്റൊരു കാരണം ഇത് സംഘർഷത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണയാണ് മാത്രമല്ല ഇത് സാധുതയുള്ളതും ആണ് എന്നാൽ ഈ കോഴ്സിലെ ഒരു പങ്കാളിയെന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ നിങ്ങളുടെ ആന്തരിക കാമ്പ് മുഴുവൻ മാറ്റാൻ ഇത് ഉപയോഗിക്കുക ഞാൻ പറയും സംഘർഷം ഇങ്ങനെ നോക്കുക സംഘർഷത്തെ നെഗറ്റീവ് ആയി കാണുന്നതിനുപകരം പോസിറ്റീവ് ആയി കാണുക ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സംഘർഷത്തെ ഒരു നല്ല കാര്യമായി കാണാൻ കഴിയും നന്നായി പരിഹരിക്കപ്പെട്ട ഒരു സംഘർഷത്തിന് സംരക്ഷണം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആദ്യം മനസ്സിലാക്കുക ഫലങ്ങൾ അത് സജ്ജീകരിച്ച ഒരു കമ്പനിയിലായാലും അത് ഒരു തൊഴിൽ അന്തരീക്ഷത്തിലായാലും അല്ലെങ്കിൽ ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബ സജ്ജീകരണത്തിൽ ഫലങ്ങൾ ഫലപ്രദമായിരിക്കും ഇത് ഒരു വിജയകരമായ സാഹചര്യമാണെങ്കിൽ അത് വളരെ ഉൽപ്പാദനക്ഷമമായിരിക്കും വ്യക്തത വരുത്താൻ വൈരുദ്ധ്യങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കാം തെറ്റായ ആശയവിനിമയം വ്യക്തമാക്കുക തെറ്റിദ്ധാരണകൾ വ്യക്തമാക്കുക നിങ്ങൾ സജീവമായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുക മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ പണം നൽകുകയും ചെയ്യും അന്തരീക്ഷം ഉത്തേജിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വ്യക്തമാക്കാനും അതിൽ നിന്ന് പഠിക്കാനും കഴിയുമ്പോൾ ആശയവിനിമയ ചാനലുകൾ തുറന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആശയവിനിമയ അന്തരീക്ഷം ഉത്തേജിപ്പിക്കാൻ കഴിയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും ഒരു സംഘർഷത്തിന്റെ അവസാനത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അത് എല്ലായ്പ്പോഴും ഒരു ശക്തിപ്പെടുത്തലിലേക്ക് നയിക്കും ബന്ധങ്ങളും അത് അടുപ്പമുള്ള ബന്ധങ്ങൾ വളർത്താൻ കഴിയും ഈ ആളുകൾ വളരെ സന്തുഷ്ടവും ആഴത്തിൽ മനസ്സിലാക്കുന്നതുമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ബന്ധവും പക്ഷേ അവർ ജീവിതത്തിൽ ഒരിക്കലും വഴക്കിട്ടിട്ടില്ല അല്ല ഇടയ്ക്കിടെ തർക്കിക്കുന്നത് ജനങ്ങളാണ് തർക്കിക്കുന്നത് ജനങ്ങളാണ് ഇടയ്ക്കിടെ പരസ്പരം സംസാരിക്കുകയും അവർ അത് പരിഹരിക്കുകയും ചെയ്യുന്നു അവർ അത് പരിഹരിക്കപ്പെടാതെ വിടുകയാണെങ്കിൽ അത് വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹമോചനം പോലെയുള്ള ദോഷകരമായ ഏത് സാഹചര്യത്തിലേക്കും പോകാം ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാത്തരം അക്രമപരവും ദോഷകരവുമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുക എന്നാൽ മറുവശത്ത് സംഘർഷങ്ങൾ പരിഹരിക്കാൻ അവർക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെങ്കിൽ അവർ മനപ്പൂർവ്വം സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ അവസാനം അത് അടുപ്പമുള്ള ബന്ധങ്ങൾ വളർത്തും വ്യക്തിപരമായ തലത്തിൽ നിങ്ങൾക്ക് ചില സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉയർന്നുവരാൻ കഴിയും ഒരു ജോലിസ്ഥലത്ത് സൃഷ്ടിപരമായ പരിഹാരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും മിക്കപ്പോഴും നിങ്ങൾ ഒരു ജോലിസ്ഥലത്ത് ബ്രെയിൻ സ്റ്റോർമിംഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിരവധി കാര്യങ്ങൾ കണ്ടെത്തും ബോക്സ് ചിന്തയ്ക്ക് പുറത്തുള്ള രസകരമായ ആശയങ്ങൾ പക്ഷേ സംഘർഷങ്ങൾ മാറുന്നതുവരെ ഒരിക്കലും വന്നില്ല പോരാട്ടത്തിന്റെ പേരിൽ ഒരുമിച്ച് ഇരിക്കുന്നതിനുള്ള ഒരു തരം ഉറവിടം പക്ഷേ പോരാട്ടത്തിന്റെ പേരിൽ വ്യക്തിപരമായ സംഘർഷങ്ങളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ നൂതന പരിഹാരങ്ങൾ കൊണ്ടുവന്നു പുതിയ ബന്ധങ്ങളും സൌഹൃദങ്ങളും സമ്പന്നമാക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും ഇൻട്രാ ഗ്രൂപ്പ് സംഘർഷങ്ങളിൽ ഗ്രൂപ്പ് കൂടുതൽ കരുതലും ഉൾക്കൊള്ളലും ഉള്ളതായി മാറുന്നു ഉദാഹരണത്തിന് അവർ ഗ്രൂപ്പിനുള്ളിൽ ചില 2 3 ആളുകളുണ്ട് ഗ്രൂപ്പ് പരിഗണിക്കുന്നില്ല പക്ഷേ അതിനുശേഷം വൈരുദ്ധ്യം അവർ ആ മൂന്നെണ്ണത്തെ നന്നായി മനസ്സിലാക്കുന്നു തുടർന്ന് അവർ കൂടുതൽ കരുതലും ഉൾച്ചേർക്കലും ഉള്ളവരായി മാറുന്നു അവർ എന്തു ചെയ്താലും അവരെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുന്നു മൊത്തത്തിൽ സംഘർഷങ്ങൾ വളർച്ചയ്ക്കും മികവ് കൈവരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മറികടക്കുന്നതിനുമുള്ള അവസരങ്ങളാണ് വൈരുദ്ധ്യങ്ങൾ ഉപയോഗിക്കുക അവ പരിഹരിക്കുക തുടർന്ന് മികവിൽ എത്തുക ഇപ്പോൾ ചില തരത്തിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സംഘർഷം പരിഹരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏതുതരം വ്യക്തിയാണെന്ന് നോക്കാം സാധാരണയായി ധാരാളം ആളുകൾ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ഒഴിവാക്കുന്ന തരത്തിലുള്ളവർ ഒന്നുകിൽ അവർ ലജ്ജാലുക്കളാണ് അവർ അന്തർമുഖരാണ് അല്ലെങ്കിൽ അവർ സമാധാന നിർമ്മാതാക്കൾ മാത്രമായിരിക്കാം ആളുകൾ പരസ്പരം പോരടിക്കരുതെന്ന് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല എല്ലായ്പ്പോഴും സൌഹാർദ്ദപരമായ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ അത് ഒഴിവാക്കുന്നു അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല മറ്റൊരു തരം ഉൾക്കൊള്ളുന്നതാണ് ഒഴിവാക്കുന്നതിനേക്കാൾ അൽപ്പം നല്ലതാണ് അവർ ഉൾക്കൊള്ളുന്നവരാണ് അവർ നിശ്ചയദാർഢ്യമില്ലാത്തവരാണ് അവർ അവരുടെ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കുന്നില്ല അവർ സഹകരണപരമായി സംഘർഷം ആദ്യം പരിഹരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു ഒന്നാമതായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റൊരാളെ വേദനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എതിർ തരം ആക്രമണ തരമാണ് ആക്രമണകാരിയും ശക്തനും ആധിപത്യം പുലർത്തുന്നവനും തൊഴിലാളിയുടെ മേൽ മേലധികാരിയെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ അധികാരം ഉപയോഗിക്കുന്നവർ വിദ്യാർത്ഥിയുടെ മേൽ അധ്യാപകൻ പോലും അധികാര പോരാട്ടത്തെ ആശ്രയിച്ച് ഭാര്യയെക്കാൾ ഭർത്താവും ചിലപ്പോൾ ഭർത്താവിനെക്കാൾ ഭാര്യയും ഇപ്പോൾ സഹകരിക്കുക സഹകരിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഉറച്ചതും സഹകരണപരവുമായ ആളുകൾ തരങ്ങൾ പക്ഷേ അവർ വിജയ വിജയ പരിഹാരങ്ങൾ തേടുന്നു വിജയകരമായ പരിഹാരങ്ങളിൽ എത്തിച്ചേരാൻ അവർ സഹകരിക്കുന്നു സാധാരണയായി ഈ രീതി ഉചിതമാണ് എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കുന്ന ആളുകളും ഉണ്ട് വിൻ ലോസ് മോഡിൽ ഞാൻ വിജയിക്കും പക്ഷേ നിങ്ങൾ തോൽക്കും അതിനാൽ ഞാൻ നിങ്ങളോട് സഹകരിക്കില്ല കാരണം നിങ്ങൾ പരാജയപ്പെടണമെന്നും നിങ്ങളുമായി സഹകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വന്തം ആശങ്കകൾ ഇല്ലാതാകുന്നു അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഒരു തരം കൂടി ഉണ്ട് അതായത് വ്യക്തി എന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന തരം ഉപേക്ഷിക്കാനും എന്തെങ്കിലും നഷ്ടപ്പെടാനും തയ്യാറാണ് എന്നിട്ട് മറ്റേയാൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവരും തോൽക്കുന്ന അവസ്ഥയിലാണ് ത്യാഗം ചെയ്യുന്നു വീണ്ടും ഐക്യം തേടുന്നു പക്ഷേ ഒരു അർത്ഥത്തിൽ അത് കൂടുതൽ വളർച്ചയെ നയിക്കാൻ പോകുന്നില്ല മറ്റൊരു സംഘർഷം വരുന്നത് വരെ അത് ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോൾ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ആശ്രയിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ ലജ്ജയില്ലാത്ത ആളാണെങ്കിലും അത് മികച്ച സന്ദർഭങ്ങളുണ്ട് അന്തർമുഖനായ വ്യക്തി നിങ്ങൾ ആക്രമണകാരിയാണെങ്കിൽപ്പോലും ചില സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ബോസ് വളരെ അക്രമാസക്തനാണെങ്കിൽ ബോസുമായി സംഘർഷമുണ്ടാകുമെന്ന് അവർ പറയുന്നു അതിനാൽ ബോസുമായി തർക്കിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ബോസ് എല്ലായ്പ്പോഴും ശരിയാണെന്ന് അവർ പറയുന്നു പിന്നെ രണ്ടാമത്തെ നിയമം പറയുന്നു സംശയം തോന്നുമ്പോൾ നിങ്ങൾ പോയി ആദ്യ നിയമം നോക്കുക അതിനാൽ അത് മിക്ക പരിസ്ഥിതികളിലും സംഭവിക്കുന്നു അവിടെ അത് ആധികാരികവും തികച്ചും യാഥാസ്ഥിതികവുമാണ് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ നിങ്ങൾ ആക്രമണകാരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ആക്രമിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൌകര്യപ്രദമായ തരം ഉപയോഗിക്കാൻ ശ്രമിക്കുക സമയങ്ങളിൽ സഹകരിക്കാൻ ശ്രമിക്കുക ഒരു വിജയ വിജയ സാഹചര്യത്തിലെത്താൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ മത്സരിക്കുന്ന തരത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെ കരുതുന്നു ഞാൻ വിജയിക്കണം ആരെങ്കിലും തോൽക്കണം അതിനാൽ രീതി മാറ്റാൻ ശ്രമിക്കുക മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ പരിഹാര തരത്തിലുള്ള സംഘർഷങ്ങൾ മാറ്റുന്നതിലൂടെ സാഹചര്യം ഇപ്പോൾ നാമെല്ലാവരും സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മൾ ശ്രമിക്കണമെന്ന് ഓർമ്മിക്കുക വിജയ വിജയ പരിഹാരത്തിൽ എത്തിച്ചേരുക നമ്മൾ മിക്കപ്പോഴും സഹകരിക്കണം നമ്മൾ ഉറച്ചുനിൽക്കണം എന്നാൽ അതേ സമയം സഹകരണവും നമ്മളും വിജയകരമായ പരിഹാരം തേടാൻ ശ്രമിക്കണം ഇപ്പോൾ ഇതിന്റെ സമാപനത്തിലേക്ക് സംഘർഷ പരിഹാരത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക 4 പ്രഭാഷണങ്ങൾ അതിനാൽ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ചില ദ്രുത നുറുങ്ങുകളും നിർദ്ദേശങ്ങളും സംഘർഷങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം നിങ്ങൾ സംഘർഷങ്ങൾ പരിഹരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ നിങ്ങൾ ഒരു സംഘർഷ പരിഹാര വിദഗ്ദ്ധനാകും നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു സംഘർഷങ്ങൾ സ്വീകരിക്കുക സംഘർഷങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് സംഘർഷങ്ങൾക്കായി നോക്കുക അതിനാൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ബന്ധപ്പെട്ട എല്ലാവർക്കും അനുകൂലമായ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു സംഘർഷത്തിനായി തിരയുമ്പോഴെല്ലാം അവ പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കുക അതിന്റെ അവസാനം നിങ്ങൾ സംഘർഷം പരിഹരിച്ച രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുകഃ ഈ സംഘർഷം ഞാൻ എങ്ങനെ പരിഹരിച്ചു ഞാൻ അത് ആക്രമിക്കുന്ന രീതിയിലാണോ ചെയ്തത് കുട്ടികളെ നിയന്ത്രിക്കാൻ ഞാൻ എന്റെ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടോ എൻറെ സുഹൃത്തുക്കളെ നിയന്ത്രിക്കാൻ ഞാൻ എൻറെ വൈകാരികശക്തി ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് ഞാൻ മത്സരിക്കുകയും ജയ തോൽവി സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തോ നിങ്ങൾ എങ്ങനെ സംഘർഷങ്ങൾ പരിഹരിച്ചു തുടർന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സഹകരിക്കുകയും ഈ വിജയ വിജയ സാഹചര്യത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്തു നിങ്ങളുടെ സംഘർഷ പരിഹാരത്തിൽ പ്രാവീണ്യം നേടാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും സഹായിക്കാൻ ശ്രമിക്കുക അതുപോലെ സംഘർഷ പരിഹാരത്തിൽ മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ആളുകളെ നിങ്ങളെ അറിയിക്കുക ആ കഴിവ് വികസിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ അജ്ഞാതമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ഒരു റോഡിലൂടെയോ അല്ലെങ്കിൽ അവിടേക്കോ നടക്കുമ്പോൾ അയൽപക്കത്ത് ഒരു വഴക്ക് തെരുവിൽ വഴക്ക് തുടർന്ന് ബോസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു തുടർന്ന് ചോദിക്കുകയും തുടർന്ന് കണ്ടെത്തുകയും ചെയ്യുക നിങ്ങൾക്ക് അവർക്കുവേണ്ടി തർക്കം പരിഹരിക്കാൻ കഴിയും അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അജ്ഞാതമായ സാഹചര്യങ്ങളിൽ പോലും സൌമ്യമായി ഇടപെടുക എന്നതാണ് ഒരു സംഘർഷമുണ്ടെങ്കിൽപ്പോലും ഒരു നിഷ്ക്രിയ നിരീക്ഷകനായി അതിൽ നിന്ന് ഓടിപ്പോകരുത് ഇത് പോരാട്ടവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ പോയാൽപ്പോലും ആളുകൾ പരസ്പരം പോരടിക്കുന്നു പിന്നെ മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുക ആളുകൾ നിങ്ങളെ മിക്കപ്പോഴും അടിക്കാൻ പോകുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാം തുടർന്ന് നിങ്ങളുടെ റെസല്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണുകയും തിരികെ പോകുകയും ചെയ്യാം മുമ്പത്തെ പാഠത്തിലേക്ക് പൊതുവായ ചില പ്രക്രിയകളും രീതികളും ഉപയോഗിക്കുക നിങ്ങൾ ആദ്യം വസ്തുതകൾ അറിയാൻ ആഗ്രഹിക്കുന്നു സഹാനുഭൂതി ഉപയോഗിക്കുക ഇരുപക്ഷത്തെയും ശ്രദ്ധിക്കുക തുടർന്ന് ആകസ്മികത നൽകുക മൂന്നാം വശത്തേക്കും അതിലൂടെ നിങ്ങൾക്ക് അത് പരിഹരിക്കാനും ഓർമ്മിക്കാനും കഴിയും നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനുള്ള അവസരങ്ങളായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സംഘർഷങ്ങൾ ഉപയോഗിക്കാം മനുഷ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക അതിനാൽ ഇതുമായി ഞാൻ സംഘർഷ പരിഹാരത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആസ്വദിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് സഹായം തേടാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ആരെയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിർത്തുക അപ്പോൾ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള നിങ്ങളുടെ ആന്തരിക കഴിവ് വികസിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ഒരു വിജയകരമായ സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുക ഏറ്റവും പ്രധാനമായി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് ഉള്ളിലെ സംഘർഷങ്ങൾ ഉപയോഗിക്കുക പരിഹരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ വ്യക്തിപരമായ സംഘർഷങ്ങൾക്കുള്ളിലെ സംഘർഷങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതുപോലുള്ള വ്യക്തിപരമായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുണ്ട് സമയം ശുചിത്വം കൈകാര്യം ചെയ്യുക ജോലിസ്ഥലം കൈകാര്യം ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ശേഖരിക്കുകയും മോശമാക്കുകയും ചെയ്ത ചില ശീലങ്ങൾ കൈകാര്യം ചെയ്യുക പിന്നെ ഇവയിൽ ചിലത് എങ്ങനെ മറികടക്കാം സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം ഇപ്പോൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയിൽ ചിലത് ഘട്ടം ഘട്ടമായി നമ്മൾ നോക്കും ഈ കോഴ്സ് എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നുറുങ്ങുകൾ നൽകാനും തുടർന്ന് നിങ്ങളെ പരിശീലിപ്പിക്കാനും ശ്രമിക്കുകയാണ് ഒരുതരം വിദഗ്ധൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം തലത്തിലും ഇത് പരിഹരിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ ഒരു പുതിയ പാഠവുമായി ഞാൻ തിരിച്ചുവരും